ഈ പത്തൊൻപതാമത്തെ ലെക്ച്ചറിലേക്കു സ്വാഗതം നാം സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിച്ചു നെറ്റ്വർക്ക് അനലൈസർ കാലിബ്രേഷൻ ചെയ്യുന്നതാണ് ഈ കോഴ്സിൽ നാം മുമ്പ് പറഞ്ഞിരുന്നു നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിക്കുന്നത് ഒരു നെറ്റ്വർക്കിന്റെ സ്കേറ്ററിങ് പാരാമീറ്റർ കണ്ടുപിടിക്കാനാണ് അതിനാലാണ് അത് അളക്കലിൽ വളരെ പ്രാധാന്യമുള്ള ഉപകാരണമാകുന്നത് ഈ നെറ്റ്വർക്ക് അനലൈസറിന്റെ ആർക്കിടെക്ചർ പഠിച്ചപ്പോൾ നാം കണ്ടു സ്കേറ്ററിങ് പാരാമീറ്റർ അളക്കുന്നത് പല പ്ലെയിൻ ആശ്രയിച്ചാണ് അപ്പോൾ പ്ലെയിൻ മാറ്റുകയാണെങ്കിൽ സ്കേറ്ററിങ് പാരാമീറ്ററും മാറുന്നതാണ് ഇനി നോക്കുക നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് നാം അളക്കുമ്പോൾ റഫറൻസ് പ്ലെയിൻ എന്നത് ഈ ഉപകരണത്തിന്റെ ഉള്ളിലാണ് അത് പുറത്തേക്കു ലഭിക്കുന്നില്ല ഈ DUT എന്നത് പോർട്ടിലേക്കു കണക്ട് ചെയ്യാൻ നമുക്ക് ചില കണ്ണെക്ടർ വേണ്ടതാണ് നാം ചില കേബിൾ കണക്ട് ചെയ്യുന്നു നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഡിവൈസ് എന്നത് ഇതാണ് ഇത് അധികമായി ഉള്ള സാധനമാണ് അത് നമ്മുടെ റഫറൻസ് പ്ലെയിൻ എന്നതിൽ മാറ്റം വരുത്തുന്നു അതിനാലാണ് ഈ അളക്കലിൽ ചില ലോസ് ഫേസ് ഡിലെ എന്നിവ ഇവിടെ ഉണ്ടാകുന്നത് അപ്പോൾ അളവിൽ ചില എറർ ഉണ്ടാകാം നെറ്റ്വർക്ക് അനലൈസർ ഉപയോഗിച്ച് കൃത്യതയോടെ അളക്കേണ്ടതായതു കൊണ്ട് ഈ എറർ കാര്യമായ ഫലം ഉണ്ടാക്കുന്നു മൈക്രോവേവ് ബെഞ്ച് പോലുള്ള ഉപകരണങ്ങളിൽ അളവ് കൃത്യമായല്ല ലഭിക്കുന്നത് അത്കൊണ്ട് തന്നെ റഫറൻസ് പ്ലെയിൻ മാറുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എറർ കാര്യമായ ഫലം ഉണ്ടാക്കുന്നില്ല എന്നാൽ ഈ നെറ്റ്വർക്ക് അനലൈസറിൽ ഉള്ള അളവ് വളരെ കൃത്യമാണ് അതിനാൽ ആ എറർ പരിഹരിക്കേണ്ടതാണ് നാം ചെയ്യുന്നത് ഈ എറർ എല്ലാം തന്നെ ഒരുമിച്ചു എറർ ബോക്സ് എന്ന ബോക്സിൽ ഇടുക എന്നതാണ് അപ്പോൾ ഈ എറർ ബോക്സ് എല്ലാ തര൦ ലോസുകളും എററുകളും പ്രതിനിതീകരിക്കുന്നു ഈ എറർ ബോക്സ് S പാരാമീറ്റർ ഉപയോഗിച്ചാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു എറർ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ ഈ എറർ ബോക്സിന്റെ S പാരാമീറ്റർ കണ്ടെത്താൻ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് എപ്പോഴും സംഭവിക്കാം ഈ അനുമാനങ്ങൾ കൃത്യമല്ല എങ്കിൽ ഈ രണ്ടു പോർട്ടുകൾക്കിടയിൽ കണക്ട് ചെയ്യുന്നത് എന്ത് തന്നെ ആയാലും അത് എറർ ഉണ്ടാക്കുന്നതാണ് പിന്നെ അവ സിമെട്രിക് ആണ് അതുപോലെ തന്നെ അവയ്ക്കു ഒരേ ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് ആണ് ഉള്ളത് പൊതുവായ S പാരാമീറ്റർ ഉപയോഗിച്ച് ഈ ക്യാരക്റ്ററിസ്റ്റിക് ഇമ്പിഡൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ അതും ഇവിടെ പറയുന്നു വീണ്ടും നാം അനുമാനിക്കുക എറർ ബോക്സ് രണ്ടു പോർട്ടിനും ഒരുപോലെ ആണ് എന്നതാണ് അതിന്റെ അർത്ഥ൦ രണ്ടു പോർട്ടിലും ഒരേ പോലെ ഉള്ള കണക്ഷൻ ആണ് എന്നാണ് അങ്ങനെ അല്ല എങ്കിൽ ഫോർമുലയിൽ നാം കുറച്ചു മാറ്റം വരുത്തേണ്ടതാണ് പിന്നെ എറർ ബോക്സ് റേസിപ്രോക്കൽ ആണ് അതിന്റെ അർഥം ഈ കണക്ഷനിൽ നാം റേസിപ്രോക്കൽ അല്ലാത്ത ഒന്നും തന്നെ ഉപയോഗിക്കുന്നതല്ല അതിനാൽ എറർ ബോക്സ് റെസിപ്രോക്കൽ ആണ് പണ്ട് കാലത്തു നെറ്റ്വർക്ക് അനലൈസർ കാലിബ്രേഷൻ ചെയ്തിരുന്ന ലളിതമായ രീതി താഴെ പറയുന്നത് പോലെ ആയിരുന്നു നാം 3 സ്റ്റാൻഡേർഡ് ലോഡ് ഉപയോഗിക്കുന്നു ഒന്ന് ഷോർട് പിന്നെ ഒന്ന് ഓപ്പൺ പിന്നെ മാച്ച് ലോഡ് അവയുടെ സ്വഭാവം നമുക്കറിയാം പിന്നെ ഓരോ ലോഡിന്റെയും റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഏതൊക്കെ ആണ് എന്നും അറിയാം ഷോർട് ആണെങ്കിൽ മൈനസ് 1 പിന്നെ ഓപ്പൺ ആണെങ്കിൽ പ്ലസ് 1 അതുപോലെ മാച്ച് ലോഡ് ആണെങ്കിൽ അത് 0 ആയിരിക്കും ഇനി ഈ സ്റ്റാൻഡേർഡ് ലോഡ് എങ്ങനെ കിട്ടും എനിക്ക് ഇവിടെ ഒരു ഷോർട് ഡിസൈൻ ചെയ്യാം അതുപോലെ അതിന്റെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് 1 ആണ് എന്നും പറയുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അത് നിർമിക്കുമ്പോൾ അത് മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ചാണ് നിർമിക്കുക അതിനു കട്ടി ഉണ്ട് അപ്പോൾ അത് ഒന്നും തന്നെ അബ്സോർബ് ചെയ്യാൻ പാടില്ല പക്ഷെ ചില വേവ് അകത്തോട്ടു പോകുന്നതാണ് അതായതു പൂർണമായ റിഫ്ലെക്ടഷൻ ലഭിക്കില്ല പിന്നെ റിഫ്ലെക്ടഡ് വേവ് എന്നത് ഇൻസിഡന്റ് വേവ് ആയി 180 ഡിഗ്രി ഫേസ് ഡിഫറെൻസ് ഉണ്ട് അതും ഇപ്പോഴും സത്യമല്ല അതും ഒരു അപൂർണത ആണ് ഇനി ഒരു ഓപ്പൺ നിർമിക്കുക എന്നത് പ്രശ്നമുണ്ടാക്കുന്ന കാര്യമാണ് ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ടെന്നത് നിങ്ങൾക്കറിയാം ആ ഷോർട് ആണ് നാം ഓപ്പൺ ആക്കി മാറ്റേണ്ടത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ അത് വളരെ കൃത്യമാണ് അത് എപ്പോഴും ഒന്നാകണമെന്നില്ല മാച്ച് ലോഡിലും അത് നാം പ്രതീക്ഷിക്കുന്നതാണ് ഇത് പൂർണമായും അബ്സോർബ് ചെയ്യുന്നു എന്നതാണ് നാം പ്രതീക്ഷിക്കുക ഒന്നും പുറത്തേക്കു വരുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നില്ല ചിലതു ഇവിടെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഏതു സ്റ്റാൻഡേർഡ് ആണെങ്കിലും അത് അപൂർണ്ണമാണ് ആ അപൂർണത ചെറുതാണ് പക്ഷെ അത് ഉണ്ട് അപ്പോൾ നമുക്ക് ആ ലോഡ് ആവശ്യമുണ്ട് അത് കൃത്യമായ സ്റ്റാൻഡേർഡ് ലോഡ് അല്ല ഇവിടെ ഉപയോഗിക്കുന്ന കാലിബ്രേഷൻ എന്നത് ആധുനികമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് TRL കാലിബ്രേഷൻ ആണ് ഇതിൽ T എന്നത് ത്രൂ ത്രൂ എന്നാൽ ത്രൂ ലൈൻ എന്നാണ് ഈ ത്രൂ നാം ഡയറക്ഷണൽ കപ്ലറിൽ കണ്ടതാണ് ത്രൂ എന്നാൽ DUT കണക്ട് ചെയ്യുന്നതിന് പകരം പോർട്ട് 1 പോർട്ട് 2 എന്നിവ കണക്ട് ചെയ്യുക അതായതു നെറ്റ്വർക്ക് അനലൈസറിന്റെ പ്രവേശിക്കാനാകുന്ന പോർട്ട് 1 പോർട്ട് 2 എന്നിവ നേരെ കണക്ട് ചെയ്യുന്നതാണ് ത്രൂ കണക്ഷൻ തീർച്ചയായും മെയിൽ ഫീമെയിൽ മാച്ച് എന്തായാലും ഇവിടെയുണ്ട് ഇനി റിഫ്ലക്ട് കിട്ടാനായി നന്നായി റിഫ്ലക്ട് ചെയ്യുന്ന ലോഡ് എടുക്കുക എന്താണ് ഹൈ റിഫ്ലെക്ടഡ് ലോഡ് ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഷോർട് അത് രണ്ടും ഉയർന്ന റിഫ്ലക്ഷൻ തരുന്നതാണ് അത് രണ്ടും 1 നു അടുത്താണ് ഒന്ന് മൈനസ് 1 പിന്നെ അടുത്തത് പ്ലസ് 1 നിങ്ങൾ ഏതെങ്കിലും എടുക്കുക അത് കൃത്യമായി മൈനസ് 1 പ്ലസ് 1 തന്നെ വേണമെന്നില്ല അതിനാലാണ് അത് ഓപ്പൺ അല്ലെങ്കിൽ ഷോർട് എന്ന് പറയാതെ റിഫ്ലക്ട് എന്ന് പറയുന്നത് അതിന്റെ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് വളരെ വലുതാണ് എന്നാൽ ഈ റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് എന്നതിന്റെ വാല്യൂ കൃത്യമായി അറിയേണ്ടതില്ല ആകെ നോക്കേണ്ടത് നല്ല റിഫ്ലക്ഷൻ കിട്ടുമോ എന്നതാണ് എന്നാൽ ആ വാല്യൂ ഈ കാലിബ്രേഷന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് അത് ആണ് അതുപോലെ ഒരു ലൈൻ എന്താണ് അത് ട്രാൻസ്മിഷൻ ലൈനിന്റെ ഒരു നിശ്ചിത നീളം ഉള്ള ഭാഗം ആണ് മിക്ക പോർട്ടുകളും കോ ആക്സിയൽ ആയതിനാൽ അത് ഒരു രീതിയിൽ കോ ആക്സിയൽ ലൈൻ ആണ് എന്നാൽ വേവ് ഗൈഡ് കാലിബ്രേഷൻ ആണെങ്കിൽ ഒരു നിശ്ചിത നീളമുള്ള വേവ് ഗൈഡ് ആണ് എടുക്കേണ്ടത് ഇനി ഇവിടെ വേണ്ട ലൈനിന്റെ നീളം എത്രയാണ് അതുപോലെ പ്രൊപഗേഷൻ കോൺസ്റ്റന്റ് എന്നത് എത്രയാണ് എന്നതും അറിയേണ്ട ആവശ്യമില്ല ഈ ലൈൻ എന്നത് ലോസ് ലെസ്സ് ആകണം പിന്നെ ആകെ ഗാമ അതായതു പ്രൊപഗേഷൻ കോൺസ്റ്റന്റ് അത് ഈ കാലിബ്രേഷന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയി കിട്ടുന്നു അപ്പോൾ ഈ TRL കാലിബ്രേഷൻ വളരെ നല്ലതാണ് എന്തെന്നാൽ ലോഡ് പിന്നെ അതുപോലെ ഉള്ളതെല്ലാം തന്നെ പെർഫെക്റ്റ് ആകണമെന്ന് നിര്ബന്ധമില്ല അവയുടെ വാല്യൂ ഈ ആകെ പ്രവർത്തിയിലൂടെ ലഭിക്കുന്നതാണ് ഇനി നമുക്ക് ഈ ത്രൂ കണക്ഷന്റെ ബ്ലോക്ക് ഡയഗ്രം നോക്കാം ഈ പോർട്ട് 1 പിന്നെ പോർട്ട് 2 എന്നിവ ഒരുമിച്ച് വച്ചിരിക്കുന്നു ഈ നെറ്റ്വർക്ക് അനലൈസറിന്റെ അകത്തുള്ള റഫറൻസ് പ്ലെയിൻ എന്നത് യഥാർത്ഥത്തിൽ ഇതാണ് അതാണ് അകത്തുള്ള പോർട്ടുകൾ ഇവിടെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്തതിനാൽ ഇവിടെ ഈ എറർ ബോക്സ് ഉള്ളതാണ് ഈ കണക്ഷന്റെ പ്രത്യേകത കാരണം ഈ എറർ ബോക്സ് എന്നതിന്റെ ഫേസ് എന്നത് തുല്യമായിരിക്കും ഇവിടെ S നു പകരം ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഉപയോഗിക്കാവുന്നതാണ് ഇതിനെ നാം ഈ സൈഡിൽ A B C D എന്നാണ് വിളിക്കുക അതുപോലെ ഈ സൈഡിൽ അത് D B C A എന്നതും ആണ് എന്തെന്നാൽ ഇവിടെ ഈ കാര്യങ്ങൾ ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്കാണ് പോകുന്നത് അപ്പോൾ പോർട്ട് 1 പോർട്ട് 2 എന്നിവയുടെ നേരെയുള്ള കണക്ഷൻ ആണ് ത്രൂ കണക്ഷൻ ഇനി ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ ഇതെല്ലാം എന്തായിരിക്കും ഇവിടെ ഈ S മാട്രിക്സ് ഉണ്ട് പിന്നെ ഇതാണ് എറർ ബോക്സ് S മാട്രിക്സ് ഇവിടെയും അതെ S മാട്രിക്സ് ആണെന്ന് അനുമാനിക്കാം അകെ ഉള്ള ഒരു കാര്യം ഇത് ഇത് പിന്നെ ഇത് ഇത് പിന്നെ ഇത് അതിനാലാണ് ഈ ദിശ ഇവിടെ മാറുന്നത് അകത്തു ഈ ത്രൂ കാണാം ഈ ത്രൂ എന്നാൽ ഈ പോയിന്റിൽ നിന്നും ഈ പോയിന്റിലേക്കു നേരെ ഉള്ള ട്രാൻസ്മിഷൻ ഈ പോയിന്റ് 1 ആണ് അപ്പോൾ ഈ പോയിന്റിൽ നിന്നും 1 ലേക്ക് ട്രാൻസ്മിഷൻ ലൈൻ ഒന്നുമില്ല ഈ രണ്ടു അറ്റങ്ങൾ 1 മായി കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഉയർന്ന റിഫ്ലക്ഷൻ ഉള്ള ലോഡ് ആണ് ഉള്ളത് അതിനാലാണ് പോർട്ട് 1 ൽ ഉയർന്ന റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ലഭിക്കുന്നത് അതുപോലെ പോർട്ട് 2 ലും ഉയർന്ന റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ലഭിക്കുന്നതാണ് അപ്പോൾ ഉയർന്ന റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ഉള്ള ലോഡ് നമുക്ക് നാമമാത്രമായ ഓപ്പൺ അല്ലെങ്കിൽ ഷോർട് ഉപയോഗിച്ച് ലഭിക്കുന്നതാണ് അവിടെ എന്നത് അറിയേണ്ടതില്ല ഇതിനെ നാം R മാട്രിക്സ് എന്ന് വിളിക്കുന്നു ഈ R എന്നാൽ റിഫ്ലക്ട് അപ്പോൾ ഈ എറർ ബോക്സ് എന്നത് ഇപ്പോൾ R മാട്രിക്സ് ആണ് മുമ്പ് പറഞ്ഞ കേസിലെ പോലെ ഇവിടെ ഒരു T കണക്ട് ചെയ്താൽ ഈ എറർ ബോക്സ് പിന്നെ ഈ ആകെ കണക്ഷനെ നാം T മാട്രിക്സ് എന്നാകും വിളിക്കുക ഇനി റിഫ്ലക്ഷൻ കേസിൽ ഇതിനെ ആകെ R മാട്രിക്സ് R matrix എന്ന് വിളിക്കുന്നു ഇതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് Signal Flow Graph അത് പോർട്ട് 1 ന്റെ സൈറ്റ് ഇത് പോർട്ട് 2 സൈറ്റ് അതിനിടയിൽ ഇതാണ് രണ്ട് ചേരാത്ത ഗ്രാഫുകൾ എന്തെന്നാൽ റിഫ്ലക്ഷൻ കണക്ഷനിൽ പോർട്ട് 1 ൽ എല്ലാം സ്വന്തമായി തന്നെ ലഭിക്കുന്നു പോർട്ട് 2 ലും അങ്ങനെ തന്നെ ഇതാണ് ലൈൻ കണക്ഷന്റെ ബ്ലോക്ക് ഡയഗ്രം ലൈൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്മിഷൻ ലൈൻ എന്നാണ് നാം എന്ന് ഊഹിക്കുന്നില്ല അത് ആണ് അതിനാൽ ലോസ് എന്നത് അനുവദനീയമാണ് നിങ്ങൾക്കു ഇവിടെ ഒരു ലൈൻ കണക്ഷൻ കാണാം പോർട്ട് 1 പോർട്ട് 2 എന്നിവയുടെ ഇടയിൽ ഒരു മാച്ച് ചെയ്ത ട്രാൻസ്മിഷൻ ലൈൻ അതിന്റെ നീളം എത്രയാണെന്ന് അറിയണമെന്നില്ല അതുപോലെ ലോസ് ലെസ്സ് ആകണമെന്നും ഇല്ല ഈ രണ്ടു എറർ ബോക്സുകൾ പിന്നെ ഈ ലൈൻ ഇവയെ ആകെ നമ്മൾ L മാട്രിക്സ് എന്ന് പറയുന്നു അപ്പോൾ ഈ T R പിന്നെ L എന്നിവ കണ്ടെത്തിയാൽ ഈ എറർ ബോക്സ് എന്നത് പൂർണമായി കണ്ടെത്താം ഇതാണ് ലൈൻ കണക്ഷന്റെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഈ രണ്ടു ലൈനിന്റെ ഇടയിൽ 2 പോർട്ട് നെറ്റ്വർക്ക് കൊടുത്തിരിക്കുന്നു ഇനി T മാട്രിക്സിലേക്കു വരിക ഇതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇവിടെ നാം മേസൺ ഫോർമുല mason's formula പ്രയോഗിക്കുന്നു എന്താണ് നാം കണ്ടെത്താൻ ശ്രമിക്കുന്നത് അത് T മാട്രിക്സ് ആണ് ഈ T മാട്രിക്സ് എന്ന് പറയുന്നതും ഒരു തരത്തിൽ S മാട്രിക്സ് അതായതു സ്കേറ്ററിങ് പാരാമീറ്റർ ആണ് അത് ഈ രണ്ടു എറർ ബോക്സുകളുടെ പിന്നെ ഈ കണക്ഷനുകളുടെയും ഒരുമിച്ചുള്ള സ്കേറ്ററിങ് പാരാമീറ്റർ ആണ് ഈ എന്നത് ആണ് അതും എന്നത് 0 ആകുമ്പോൾ അതായതു ഈ സൈഡ് മാച്ച് ആകുമ്പോൾ ഇവിടെ എത്ര എനിക്ക് ലഭിക്കും എനിക്ക് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നിന്നും ഈ ഡിപെൻഡന്റ് വേരിയബിളിലേക്കു കണക്ട് ചെയ്യണം ഏതെല്ലാം വഴി എനിക്കങ്ങനെ ചെയ്യാനാകും ഒരു വഴി എന്നത് തീർച്ചയായും ഇതാണ് അത് P 1 ആണ് പിന്നെ അവിടെ പാത്ത് വാല്യൂ എന്നത് ആണ് മറ്റൊരു പാത എന്നത് ഇതാണ് എന്നിട്ട് എനിക്ക് തിരിച്ചു വരാം നാം അതിനെ 1 1 എന്നിവയുടെ പ്രോഡക്റ്റ് ആയി എഴുതുന്നു അത് പോലെ വേറെ ഏതെങ്കിലും വഴി ഇവിടുണ്ടോ എനിക്ക് ഇത് പോലെ ഇവിടെ വരാനാകുമോ അത് നാം ചെയ്തതാണ് എന്നാൽ ഇതിലൂടെ നമുക്ക് വരാനാകില്ല അതിനാൽ ഈ വശത്തു നിന്നും ഈ വശത്തേക്ക് ആകെ രണ്ടു പാതകൾ ആണ് ഉള്ളത് ഇനി ഇവിടെ ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ ഇത് ഒരു ലൂപ്പ് അല്ല എന്തെന്നാൽ എനിക്ക് ഇങ്ങോട്ടു വരാനാകില്ല ഇത് ഒരു ലൂപ്പ് ആണ് പിന്നെ ഇതും ഒരു ലൂപ്പ് ആണ് എന്നാൽ ഇത് ഒരു ലൂപ്പ് അല്ല അപ്പോൾ ഇവിടെ അകെ ഒരു ഫസ്റ്റ് ഓഡർ ലൂപ്പ് മാത്രമാണ് ഉള്ളത് അത് ഈ 1 ആണ് 1 എന്നത് എന്ന രൂപത്തിൽ എഴുതുന്നു ഇവിടെ ഒരു മാത്രം ഉള്ള സ്ഥിതിക്ക് എന്നിവ ഒന്നും ഉണ്ടാകുന്നതല്ല ഇനി നമുക്ക് ഈ തന്നെയാണോ ഇവിടെ P1 എന്നത് നോക്കാം അതായതു P1 എന്ന പാതയെ തൊടാത്ത ഫസ്റ്റ് ഓഡർ ലൂപ്പ് P1 എന്നത് ഈ ഭാഗമാണ് അതുപോലെ ഇതാണ് ഫസ്റ്റ് ഓഡർ ലൂപ്പ് അപ്പോൾ തീർച്ചയായും ഇവ നോൺ ടച്ചിങ് ആണ് അപ്പോൾ ആ വാല്യൂ എന്താണ് അത് ഇതാണ് എന്നത് ഈ വഴി ആണ് എന്നാൽ ഈ പാത ലൂപ്പിനെ തൊടുന്നുണ്ട് അതിനാലാണ് എന്ന് എഴുതുന്നത് ഇതിൽ നിന്നും വാല്യൂ എഴുതാം അപ്പോൾ ഫോർമുല എന്നത് ഇൻ റ്റു പ്ലസ് 1 മൈനസ് അത് 0 ആണ് ഇവിടെയാണ് 1 മൈനസ് എന്നത് ഇതാണ് എന്നിവ അതാണ് നിങ്ങളുടെ അത് ഇവയുടെ രൂപത്തിൽ ആണ് എഴുതിയിരിക്കുന്നത് ഇതാണ് ആദ്യ സമവാക്യം ഇനി നമുക്ക് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്നത് 0 ആയിരിക്കണം അപ്പോൾ നാം എന്നത് 0 ആക്കുന്നു അപ്പോൾ നമുക്ക് എന്ന് ലഭിക്കും അതായത് ൽ നിന്നും ലേക്ക് എങ്ങനെ വരാം എനിക്ക് ആ പാത നേരെ കാണാം അത് ആണ് വേറെ ഏതെങ്കിലും പാത ഇവിടുണ്ടോ എനിക്ക് ഇവിടെ പോകാൻ പറ്റുമോ ഇല്ല ഇവിടെ തടസം ഉണ്ട് പിന്നെ ഇത് ഇവിടെയും തടസമാണ് അപ്പോൾ ഈ ഒരു പാതയല്ലാതെ മറ്റൊന്നും ഇവിടില്ല അത് ഇവിടെ നിന്നും ഇവിടേക്കാണ് ഇനി ഇവിടെ ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ അതെ പഴയ ലൂപ്പ് അതിന്റെ വാല്യൂ എനിക്കറിയാം എന്നാൽ എന്റെ ഈ പാതയും ആ ലൂപ്പും പരസ്പരം തൊടുന്നുണ്ടോ ഉണ്ട് അതിനാൽ ആണ് തീർച്ചയായും ഇവിടെ L എന്നിവ ഇല്ല അതിനാൽ ഈ വാല്യൂ ഇവിടെ കൊടുക്കാം പിന്നെ 1 മൈനസ് അത് 0 ഇതാണ് നമ്മുടെ രണ്ടാം സമവാക്യം ഇനി പിന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ സിമെട്രി കാരണം നമുക്ക് പറയാം എന്നത് ആണ് ഈ ആകെ സംഗതി റെസിപ്രോക്കൽ ആണ് പിന്നെ ഈ എറർ ബോക്സ് എന്നതു൦ റെസിപ്രോക്കൽ ആണെന്നാണ് നാം അനുമാനിക്കുന്നത് തീർച്ചയായും ഈ ത്രൂ കണക്ഷനും റെസിപ്രോക്കൽ ആണ് അത് വച്ച് എന്നത് ആണ് ഇതിൽ നിന്നും മറ്റൊരു അറിവും വരുന്നില്ല ഇപ്പോൾ നമുക്ക് T മാട്രിക്സ് എന്നത് പൂർണമായും അറിയാം അപ്പോൾ ഈ T എന്നത് നാം S പരാമീറ്ററിന്റെ രൂപത്തിൽ എഴുതി ഇനി നമുക്ക് T മാട്രിക്സ് എഴുതാം ഇനി റിഫ്ലക്ട് കേസിലെ ആണ് എഴുതേണ്ടത് അപ്പോൾ ഇതാണ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്നത് ആണ് അതിന്റെ അർഥം എനിക്ക് ഇവിടെ നിന്നും ഇവിടേക്കാണ് വരേണ്ടത് ഒരു പാത എന്നത് ഇതാണ് അപ്പോൾ എന്നത് ആണ് പിന്നെ മറ്റൊരു പാത ഇതാണ് അത് ആണ് ഇനി ലൂപ്പ് നോക്കുക ഇവിടെ ആണ് ഇവിടെ ഏതെങ്കിലും ഉണ്ടോ എന്താണ് P2 ഇവയാണ് ഇവിടെ ലൂപ്പുകൾ അവ ഈ പാതയെ തൊടുന്നു അതിനാൽ ആണ് ഈ കണ്ടുപിടിച്ച കാര്യങ്ങൾ നമുക്ക് ഫോർമുലയിൽ ഇടാം എന്നത് ഇതാണ് അത് നിങ്ങൾക്കു ഈ സമവാക്യം നൽകും ഗാമ 3 ഇനി പോർട്ട് 1 പോർട്ട് 2 എന്നിവയുടെ കപ്ലിങ് മാറ്റുമ്പോൾ തീർച്ചയായും നമുക്ക് പറയാം പിന്നെ എന്നിവ 0 ആണ് എന്തെന്നാൽ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഇവിടെ കട്ട് ചെയ്തു അപ്പോൾ 1 ൽ നിന്നും 2 ലേക്കോ അല്ലെങ്കിൽ 2 ൽ നിന്നും 1 ലേക്കോ ഒരു സിഗ്നലിനും വരാനാകില്ല അപ്പോൾ പിന്നെ എന്നിവ 0 ആണ് പിന്നെ ഇത് സിമെട്രിക് ആണ് അതിനാൽ എന്നത് ആണ് എന്നാൽ അത് പൂർണമായും R മാട്രിക്സ് കണ്ടുപിടിക്കുന്നില്ല അത് R കണക്ഷന്റെ സ്കേറ്ററിങ് മാട്രിക്സ് ആണ് എന്നാൽ അത് കൂടുതലായി അറിവുകൾ ഒന്നും തരുന്നില്ല ഇനി അവസാനം ഈ എന്നത് ആണ് അതായതു ൽ നിന്നും ലേക്ക് ഒരു പാത എന്നത് പിന്നെ മറ്റൊരു പാത ഇതാണ് അത് ആണ് ഇവിടെ രണ്ടു പാതകൾ ആണ് ഉള്ളത് ഒരു മൂന്നാമത്തെ പാത ഉണ്ടോ എന്നാൽ ഇത് ഇവിടെ അനുവദിക്കുന്നില്ല അതിനാൽ ഇവിടെ രണ്ടു പാതകൾ ആണ് ഉള്ളത് ഇനി ഇവിടെ ലൂപ്പ് ഉണ്ടോ ഇതൊരു ലൂപ്പ് ആണ് അത് ആണ് ഇതും ഒരു ലൂപ്പ് ആണ് വേറെ ഏതെങ്കിലും ലൂപ്പ് ഉണ്ടോ ഇനി ഈ എന്നത് ഈ നെ തൊടുന്നുണ്ടോ ഈ ലൂപ് ഈ 1 നെ തൊടുന്നില്ല അതിനാൽ എന്നതിന്റെ വാല്യൂ ഇതാണ് ഈ ലൂപ്പ് വാല്യൂ ഇതാണ് പക്ഷെ എന്നത് ഇവിടെ തൊടുന്നുണ്ട് അതിനാൽ എന്നത് 0 ആണ് ഇനി ഈ വാല്യൂ ഇവിടെ കൊടുക്കാനാകും ഈ വാല്യൂ എന്നത് ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും ഇതാണ് നിങ്ങളുടെ നാലാമത്തെ സമവാക്യം ഇനി ആണ് കണ്ടു പിടിക്കേണ്ടത് ഈ എന്താണ് ഇവിടെ നേരെ ഒരു പാത ഉണ്ട് അത് ആണ് ഇനി വേറെ പാത ഉണ്ടോ നിങ്ങൾക്കു ഇവിടെ നോക്കാം എന്നാൽ അത് ഇവിടെ കുടുങ്ങും ഇവിടെ പോയാലും അത് തന്നെ സംഭവിക്കും അതിനാൽ ഇവിടെ മറ്റു പാതകൾ ഇല്ല ഇനി ഇവിടെ ലൂപ്പ് ഉണ്ടോ കഴിഞ്ഞ തവണയും നാം കണ്ടതാണ് ഇത് ഈ എന്നത് ഇവിടെ തൊടുന്നുണ്ട് ഈ കേസിൽ ഇതാണ് എന്നതിന്റെ വാല്യൂ അപ്പോൾ ഇതാണ് അഞ്ചാം സമവാക്യം ഇത് നാം ഈ എറർ ബോക്സുകളുടെ രൂപത്തിൽ എഴുതേണ്ടതാണ് അപ്പോൾ നമുക്കു 5 സമവാക്യങ്ങൾ ലഭിച്ചു ഈ കേസുകൾ എല്ലാം നോക്കിയാൽ അറിയാം ഈ നെറ്റ്വർക്ക് അനലൈസർ അളക്കുന്നത് ഈ ലൈൻ കണക്ഷന് വേണ്ടിയുള്ള L മാട്രിക്സ് ആണ് R കണക്ഷന് വേണ്ടി R മാട്രിക്സ് പിന്നെ T മാട്രിക്സ് എന്നത് T കണക്ഷൻ ആണ് അളക്കുക ഇതെല്ലാം തന്നെ അകത്തുള്ള പ്ലെയിനുകൾ ആണ് അപ്പോൾ ഈ അകെ കാര്യം ഇവിടെ അളക്കുന്നു അപ്പോൾ നാം കണ്ടെത്തിയത് ഈ എന്നത് നാം എന്നിവയുടെ രൂപത്തിൽ ആണ് അളക്കുന്നത് അപ്പോൾ S പാരാമീറ്റർ എന്നത് 4 എണ്ണമാണ് നമുക്ക് 5 സമവാക്യങ്ങൾ ആണ് ഉള്ളത് സിമെട്രിക് റെസിപ്രോക്കൽ എന്നിവ ഉപയോഗിച്ച് അത് നമുക്ക് സോൾവ് ചെയ്യാം നമുക്ക് 5 സമവാക്യങ്ങൾ ആണ് ഉള്ളത് നമുക്ക് 5 അൺ നോൺ ഉണ്ട് അത് ആണ് എറർ ബോക്സ് റെസിപ്രോസിറ്റി ഉള്ളതിനാൽ എന്നത് ആയിരിക്കും അത് ഇവിടെ കാണിച്ചിട്ടില്ല അതിനാൽ അങ്ങനെ 3 അൺ നോൺ പിന്നെ ഒരു അൺ നോൺ ആണ് അത് ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ആണ് ആ കേസിൽ അത് റിഫ്ലക്ഷൻ കോ എഫിഷ്യന്റ് ആണ് ഇനി ലൈനിന്റെ കാര്യത്തിൽ അത് ആണ് അപ്പോൾ ഇവിടെ ആകെ 5 അൺ നോൺ ഉണ്ട് ഇവിടെ 5 സമവാക്യങ്ങൾ ഉള്ളതിനാൽ അവ നമുക്ക് സോൾവ് ചെയ്യാം ഞാൻ അതിലേക്കു പോകുന്നില്ല അത് വളരെ ദൈർഘ്യം കൂടിയ ജോലി ആണ് അത് പക്ഷെ ചെയ്യാൻ സാധിക്കും ഈ 3 അൺ നോൺ കണ്ടു പിടിച്ചാൽ എറർ ബോക്സിന്റെ പൂർണമായ സിമെട്രി നാം കണ്ടെത്തുന്നു ഇപ്പോൾ നിങ്ങൾക്കു എറർ ബോക്സ് എന്നത് അറിയാം അപ്പോൾ യഥാർത്ഥ അളക്കളിൽ നിങ്ങൾ ഈ DUT ഉപയോഗിക്കുമ്പോൾ ഈ എറർ ബോക്സ് ഇവിടെ ഉണ്ട് എന്ന് അനുമാനിക്കാം അപ്പോൾ എറർ ബോക്സ് നിങ്ങൾ കണ്ടെത്തി അത് പോലെ റിഫ്ലക്ട് കണക്ഷനിലെ എന്നതും നാം കണ്ടെത്തി അത് നിങ്ങളുടെ ലക്ഷ്യമായിരുന്നില്ല എന്നാൽ ഏതു തരം ലോഡ് ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നും ഉള്ള സിഗ്നൽ കുറവാണെങ്കിൽ ആ ലോഡ് നല്ലതല്ല എന്ന് നമുക്ക് കണ്ടെത്താം എന്തെന്നാൽ അവിടെ സെൻസിറ്റിവിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകാം അത് നിങ്ങൾക്കു ചെക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ ത്രൂ കണക്ഷൻ എന്താണ് ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു നല്ല നടപടി ക്രമ൦ ആണ് കണ്ടത് ഇവിടെ നിങ്ങൾ ഈ 3 TRL കണക്ഷനുകളുടെ S പാരാമീറ്റർ അളന്നു നോക്കി ആദ്യം S എന്നത് മാത്തമറ്റിക്കൽ ആയി നെറ്റ്വർക്ക് അനാലിസിസ് ഉപയോഗിച്ച് കണ്ടെത്തി പിന്നെ എറർ ബോക്സ് എന്നത് അറിയാം അപ്പോൾ ഈ എറർ എന്നത് യഥാർത്ഥ അളക്കളിൽ ശരിയാക്കാനാകുന്നതാണ് ഈ സങ്കീർണമായ കാര്യം നമ്മൾ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് ഉപയോഗിച്ചാണ് ചെയ്തത് അപ്പോൾ അത് ലളിതമായി അതിനാലാണ് മൈക്രോവേവ് ഡിസൈനറിനു ഇത് വളരെ ഗംഭീരമായ ടൂൾ ആകുന്നത് നമ്മൾ ഇവിടെ അവസാന ട്യൂട്ടോറിയൽ ഒഴികെ മറ്റെല്ലാം പൂർത്തിയായി നാം 3 പ്രധാന ടൂളുകൾ ആണ് കണ്ടത് സ്മിത്ത് ചാർട് സ്കേറ്ററിങ് പാരാമീറ്റർ പിന്നെ സിഗ്നൽ ഫ്ലോ ഗ്രാഫ് എന്നാൽ അവയുടെ ഒരുപാട് ഉപയോഗങ്ങൾ നാം കണ്ടതാണ് നാം ഇമ്പിഡൻസ് മാച്ചിങ് ടെക്നിക് കണ്ടു നാം നെറ്റ്വർക്ക് അനലൈസർ കണ്ടു മൈക്രോ വേവ് ബെഞ്ച് കണ്ടു അതുപോലെ തന്നെ നാം നെറ്റ്വർക്ക് അനലൈസർ കാലിബ്രേഷൻ കണ്ടു അതുപോലെ നാം പല ഉപയോഗപ്രദമായ ഡിവൈസുകൾ കണ്ടു ഡയറക്ഷണൽ കപ്ലർ മാജിക് ടീ എന്നിവ വളരെ ഉപയോഗമുള്ള മൈക്രോവേവ് സർക്യൂട്ടുകൾ ആണ് അപ്പോൾ നമ്മുടെ തിയറി ഭാഗം തീർന്നു ഇനി അടുത്ത തവണ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിന്റെ ഉദാഹരണങ്ങൾ നോക്കുന്നതാണ് പിന്നെ അതിന്റെ ചില പരാമീറ്ററുകൾ